ഓൺലൈൻ സോഷ്യൽ മീഡിയയിലെ പ്രൈവസിയും സുരക്ഷയും എന്ന കോഴ്സിലേക്ക് സ്വാഗതം ഇത് ആഴ്ച 5 ഗൃഹപാഠങ്ങൾ ചെയ്യുന്നതിലൂടെയും ക്ലാസ്സിൽ ഞങ്ങൾ സംസാരിക്കുന്ന ചില പരിശീലനങ്ങൾ ചെയ്യുന്നതിലൂടെയും കോഴ്സിൽ നിങ്ങൾ താല്പര്യമുള്ളവരാണെന്നും കോഴ്സ് നിങ്ങൾ ആസ്വദിച്ചുവെന്നും പ്രതീക്ഷിക്കുന്നു ഇത് കോഴ്സിന്റെ പൊതുവായ അവലോകനമാണ് നമ്മൾ ഇപ്പോൾ പ്രൈവസി എന്ന വിഷയം നോക്കുന്നു കഴിഞ്ഞ ആഴ്ചയിൽ പ്രൈവസിയെക്കുറിച്ചും ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ പ്രൈവസി പ്രത്യാഘാതങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നുമുള്ള ഉള്ളടക്കങ്ങൾ നമ്മൾ കണ്ടു പ്രത്യേകിച്ചും അവ നടത്തുന്ന ഓൺലൈൻ ഡേറ്റകൾ തമ്മിലുള്ളതും ഓൺലൈൻ ഡേറ്റയും ഓഫ്ലൈൻ ഡേറ്റയും തമ്മിലുള്ളതുമായ വിശകലനങ്ങളും കൂടാതെ സാമൂഹിക സുരക്ഷാ നമ്പർ പ്രവചിക്കുന്നതു പോലെയുള്ള അവർ നടത്തുന്ന ചില പരീക്ഷണങ്ങൾ നമ്മൾ കണ്ടു ഷാദി ഡോട്ട് കോം മാച്ച് ഡോട്ട് കോം പോലുള്ള സൈറ്റുകളിൽ നിന്നുള്ള ഡാറ്റ എടുത്ത് ഫേസ്ബുക്ക് ചിത്രങ്ങളുമായി താരതമ്യം ചെയ്ത് ഈ പൊരുത്തങ്ങളിൽ നിന്നും അവർക്ക് ആളുകളെ തിരിച്ചറിയാനാവുമോ എന്ന രീതിയിലാണ് ഓൺലൈൻ ഡേറ്റകൾ തമ്മിലുള്ള പഠനം നടത്തിയത് ഓഫ്ലൈൻ ഓൺലൈൻ ഡേറ്റകൾ തമ്മിലുള്ള വിശകലനം നടത്തിയത് ക്യാമ്പസ്സിൽ ചുറ്റി നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ചിത്രണങ്ങൾ എടുത്ത് അവ അവരുടെ ഫേസ്ബുക് പ്രൊഫൈലുമായി താരതമ്യം ചെയ്യുകയും അവരോട് ഇത് നിങ്ങളുടെ പ്രൊഫൈൽ ആണെന്ന് പറയുകയും ഫേസ്ബുക്കിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത ചിത്രങ്ങൾ അവരുടേതാണെന്ന് ചില ഉറപ്പുവരുത്തലുകൾ നടത്തുകയും ചെയ്തുകൊണ്ടാണ് പൊതുവായി ലഭ്യമായ ഈ ഡാറ്റ ഓൺലൈനിലും ഓഫ്ലൈനിലും യഥാർത്ഥത്തിൽ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ പ്രവചിക്കാൻ അവർ ഉപയോഗിക്കുന്നു കൂടാതെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറിന്റെ അഞ്ച് അക്കങ്ങൾ പ്രവചിക്കുന്നതിൽ ഡേറ്റയുടെ 10 ൽ 1 ശതമാനം അവർ വിജയിക്കുകയും സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ പ്രവചിക്കുന്നതിൽ അവർക്ക് ആത്മവിശ്വാസം ഉള്ളതായും കാണാം അതിനാൽഇതാണ് നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങൾ ഓൺലൈൻ സോഷ്യൽ മീഡിയയിലെ സ്വകാര്യതയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം തുടർന്ന് നമ്മൾ ഈ ആഴ്ച മറ്റൊരു വിഷയത്തിലേക്ക് പോകും ആ ചിത്രങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് ഈ വിവരങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉപയോഗിക്കാനാകും എന്നാൽ നിങ്ങൾ എവിടെയാണെന്നും എവിടേക്കാണ് നീങ്ങുന്നതെന്നും പോലുള്ള കാര്യങ്ങൾ കണ്ടെത്താനും നിങ്ങൾക്ക് ലൊക്കേഷൻ പോലുള്ള കൂടുതൽ നിർദ്ദിഷ്ട വിവരങ്ങൾ ഉപയോഗിക്കാൻ കഴിയും ലൊക്കേഷൻ അധിഷ്ഠിത സോഷ്യൽ നെറ്റ്വർക്കുകളിലൊന്നായ ഫോർ സ്ക്വയറിൽ നിന്നുള്ള സ്വകാര്യതാ വിവരങ്ങൾ കാണിക്കാൻ ഗവേഷകർ നടത്തിയ ഒരു പഠനം ഇതാ ഇത് വളരെ പ്രശസ്തമായ ലൊക്കേഷൻ അധിഷ്ഠിത സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ഒന്നാണ് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടെത്താൻ ഫോർസ്ക്വയറിൽ നിന്നുള്ള ഡാറ്റ യഥാർത്ഥത്തിൽ ഉപയോഗിക്കാനാകും ഫോഴ്സ്ക്വയറിൽ നിങ്ങൾ ചെയ്യുന്ന ചെക്ക് ഇന്നുകളിൽ നിന്ന് ഹോം ലൊക്കേഷൻ അനുമാനിക്കുന്നതിനുള്ളതാണ് ഈ രണ്ട് ഗവേഷണങ്ങളും ഞാൻ പഠനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ പോകുന്നില്ല അതിനാലാണ് ഞാൻ പേപ്പറുകളിൽ പോയിന്ററുകൾ ഇടുന്നത് പക്ഷേ ഇത് എങ്ങനെ ചെയ്തു ഇത് എങ്ങനെ ചെയ്യാം ചില ഡാറ്റ നിങ്ങൾക്ക് തന്നെ എങ്ങനെ നോക്കാം എന്നതിനെക്കുറിച്ച് ഞാൻ പൊതുവായി പറയാം ഫോർസ്ക്വയർ പ്രശസ്തമായ ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ഒന്നാണ് ലൊക്കേഷന്റെ പേരിൽ അതിനെ ലൊക്കേഷൻ ബേസ്ഡ് സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നു ഫോർസ്ക്വയറിലെ വ്യത്യസ്ത വിഷയങ്ങളും വ്യത്യസ്ത ആശയങ്ങളും ചെക്ക് ഇൻ ആണ് ചെക്ക് ഇൻസ് നിങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാം എയർപോർട്ടുകളിൽ ചെക്ക് ഇൻ ചെയ്യാം അതുപോലെ തന്നെ ഫോർസ്ക്വയറിലെ ഒരു ലൊക്കേഷനിലും ചെക്ക് ഇൻ ചെയ്യാം കൂടാതെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു ടിപ്പ് നൽകാനും സാധിക്കും ഞാൻ ഡൽഹിയിലെ സർവനാ ഭവനിലേക്ക് പോയാൽ നമുക്ക് ചെക്ക് ഇൻ എടുക്കാം എനിക്ക് അവിടെ ഭക്ഷണമുണ്ട് ഭക്ഷണം വളരെ നല്ലതാണെന്ന് പറഞ്ഞ് അവിടെ എനിക്ക് ഒരു ടിപ്പ് നൽകാം നിങ്ങൾക്ക് ഫോർസ്ക്വയറിൽ ഒരു മേയറാകാനും കഴിയും അതായത് ഞാൻ ഈ സ്ഥലം സന്ദർശിക്കുകയാണെങ്കിൽ അതായത് കഴിഞ്ഞ 60 ദിവസങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ തവണ ഫോർസ്ക്വയറിൽ ഈ സ്ഥലം സന്ദർശിക്കുകയാണെങ്കിൽ ഫോർസ്ക്വയറിൽ ഞാൻ ഈ സ്ഥലത്തിന്റെ മേയറാകും മേയർ വിവരങ്ങൾ യഥാർത്ഥത്തിൽ വളരെ ഉപയോഗപ്രദമാകും ഇന്ന് ഓർഗനൈസേഷനുകൾ ഫോർസ്ക്വയറിലെ ഈ ചെക്ക് ഇൻകളും മേയർ സ്ഥാനവും ധനസമ്പാദനം നടത്തുന്നത്തിനായി ഉപയോഗിക്കുന്നു നിങ്ങൾ ആ സ്ഥലത്തിന്റെ മേയറാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ആ ആഴ്ചയിൽ നിങ്ങൾക്ക് സൌജന്യ പാർക്കിംഗ് സ്ഥലങ്ങൾ നൽകുന്നു നിങ്ങൾ നൽകുന്ന ചെക്ക് ഇൻ വിവരങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ലൊക്കേഷനും നിങ്ങളുടെ ഹോം ലൊക്കേഷനും കണ്ടെത്താൻ ഉപയോഗിക്കാം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ചിത്രങ്ങളിൽ നിന്ന് നിങ്ങളുടെ വീടിന്റെ സ്ഥാനം എനിക്ക് കണ്ടെത്താനാകുമോ എന്നതുപോലെയുള്ള മറ്റ് കാര്യങ്ങൾ ആളുകൾ യഥാർത്ഥത്തിൽ പഠിച്ചിട്ടുണ്ട് ഫോർസ്ക്വയർ പോലുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിന്ന് ഹോം ലൊക്കേഷൻ കണ്ടെത്തുന്നതിൽ ഈ വർക് പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു കൂടാതെ ആളുകൾ ചെയ്ത ഫോർസ്ക്വയർ ചെക്ക് ഇൻ ഉപയോഗിച്ച് ഹോം ലൊക്കേഷൻ കണ്ടെത്തുന്നതിൽ ഉയർന്ന കോൺഫിഡൻസും ഉണ്ട് ആളുകളുടെ മൊബിലിറ്റി യഥാർത്ഥത്തിൽ അത്രയധികമല്ല ആളുകൾ അവരുടെ നിലവിലെ സ്ഥാനത്ത് നിന്ന് അധികം മാറുന്നില്ല എന്നതാണ് അവർ കണ്ടെത്തിയ മറ്റൊരു നിഗമനം ചെക്ക് ഇൻ മേയർഷിപ്പ് തുടങ്ങിയ ഈ വിവരങ്ങളിലൂടെ ഏതാനും കിലോമീറ്റർ പിശക് പറ്റിയെങ്കിലും വ്യക്തിയുടെ ഹോം ലൊക്കേഷൻ ആത്മവിശ്വാസത്തോടെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു അതിനാൽ സോഷ്യൽ നെറ്റ്വർക്ക് ഡാറ്റ സ്വകാര്യത തുടക്കത്തിൽ ആളുകൾ സോഷ്യൽ നെറ്റ്വർക്കുകളുടെ വിവരങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ പറഞ്ഞ ചില സർവേകൾ നമ്മൾ കണ്ടു തുടർന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡുചെയ്ത ചിത്രങ്ങളും പൊതുവായി ലഭ്യമായ വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്ത ചിത്രങ്ങളെക്കുറിച്ചുമുള്ള ചില പഠനങ്ങൾ കണ്ടു അതിനെ അവർ അജ്ഞാത ഉറവിടങ്ങൾ എന്ന് വിളിച്ചു ഇത് ഒരു വ്യക്തിയെ പ്രത്യേകമായി അല്ലെങ്കിൽ അതുല്യമായി തിരിച്ചറിയുന്നതിനു വേണ്ടി യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ കഴിയും അതിനാൽ ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ലൊക്കേഷൻ ഫോർസ്ക്വയർ പോലുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിന്നും ഊഹിക്കാവുന്നതാണ് എന്നാണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ പോയിന്ററുകളിൽ ചിലത് ലഭിക്കാൻ ഞാൻ നിങ്ങളെ ശുപാർശ ചെയ്യുന്നു പൊതുവെ ഓൺലൈൻ സോഷ്യൽ മീഡിയയിലെ പ്രൈവസിയും സുരക്ഷയും സംബന്ധിച്ച വിഷയങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന എല്ലാ കോൺഫറൻസുകളും ഇവയാണ് എന്നാൽ പ്രത്യേകിച്ച് വെബിൽ നിന്നുള്ള ഡേറ്റയുമായി ബന്ധപ്പെട്ടുള്ള ഇമേജ് വിശകലനം നമ്മൾ സംസാരിക്കുന്ന ചിത്രത്തെക്കുറിച്ചുള്ള വിശകലനങ്ങൾ കൂടാതെ ലൊക്കേഷൻ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണ് WWW ഇത് ഇന്റർനെറ്റ് സ്പേസിലെ ഒരു ഉയർന്ന കോൺഫറൻസ് ആണ് കൂടാതെ വെബിലും സോഷ്യൽ മീഡിയയിലുമുള്ള മറ്റൊരു കോൺഫറൻസ് ആണ് ICWSM തുടർന്ന് ഓൺലൈൻ സോഷ്യൽ നെറ്റ് വർക്കുകളിൽ കോൺഫറൻസ് ഉണ്ട് കൂടാതെ CSCW എന്ന സഹകരണ പ്രവർത്തനവും ഉണ്ട് ഇവ സമഗ്രമായ ലിസ്റ്റുകളല്ല നിങ്ങളിൽ ആർക്കെങ്കിലും ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിന്ററുകളിലേക്ക് നോക്കാം എന്നാണ് ഇവ പറയുന്നത് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് ഫോറത്തിൽ ചോദിയ്ക്കാൻ തീർച്ചയായും മടിക്കേണ്ടതില്ല ഇപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ തന്നിരിക്കുന്ന മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോൾ അഞ്ചാം ആഴ്ചയിലാണ് കോഴ്സിലെ മറ്റ് വിഷയങ്ങളും നമുക്ക് നോക്കാൻ തുടങ്ങാം അതിനാൽ നിങ്ങൾ ഇതുവരെ ഓൺലൈൻ സോഷ്യൽ മീഡിയയുടെ പൊതുവായ അവലോകനം നടത്തി ലിനക്സ് പൈത്തൺ ട്രസ്റ്റ്ക്രെഡിബിലിറ്റി തുടങ്ങിയ സാങ്കേതിക വിഷയങ്ങൾ അവയുടെ പ്രൈവസി തുടങ്ങിയവ നോക്കിയിരുന്നു അതിനാൽ ഈ ആഴ്ചയിലെ ഉള്ളടക്കം കൂടുതലും പോലീസിങ് എന്ന വിഷയത്തിൽ ചെലവഴിക്കുന്നതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ക്ലാസ്സിലെ വിദ്യാർത്ഥികളിൽ നിന്ന് നിങ്ങൾ ഓൺലൈൻ സോഷ്യൽ മീഡിയ എങ്ങനെയാണു ഉപയോഗിക്കുന്നത് എന്നതറിനെക്കുറിച്ച് സ്ലൈഡിൽ ഉള്ളത് പോലത്തെ ചോദ്യങ്ങൾ കേൾക്കാൻ ഞാൻ തീർച്ചയായുംആഗ്രഹിക്കുന്നു ഫേസ്ബുക്കിലും ട്വിറ്ററിലും നിങ്ങൾക്ക് എത്ര സുഹൃത്തുക്കളും ഫോളോ വെഴ്സുമുണ്ട് ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് ഫോറത്തിൽ പോസ്റ്റുചെയ്യാൻ കഴിയുമെങ്കിൽ അത് നന്നായിരിക്കും ഇതിലൂടെ ഈ കോഴ്സിൽ പങ്കെടുക്കുന്നവർ യഥാർത്ഥത്തിൽ ഓൺലൈൻ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് കാണുവാനും സാധിക്കും നിങ്ങളുടെ സോഷ്യൽ നെറ്റ്വർക്കിൽ നിങ്ങളിൽ എത്രപേർ പോലീസുമായി ചങ്ങാത്തത്തിലുണ്ട് പോലീസ് ഞാൻ ഉദ്ദേശിക്കുന്നത് പോലീസ് സംഘടനകളെയാണ് കമന്റുകൾ പോസ്റ്റുചെയ്യാനോ പോലീസുമായി സംവദിക്കാനോ നിങ്ങൾ എത്ര തവണ സോഷ്യൽ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നു തീർച്ചയായും ഈ ആഴ്ചയിലെ ഉള്ളടക്കത്തിൽ ഞാൻ അഭിസംബോധന ചെയ്യാൻ പോകുന്ന ചോദ്യം യഥാർത്ഥത്തിൽ പോലീസ് ഓൺലൈൻ സോഷ്യൽ മീഡിയ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് അവർ എന്താണ് ചെയ്യുന്നത് അവർക്ക് എന്തുചെയ്യാൻ കഴിയും നമുക്ക് യഥാർത്ഥത്തിൽ എങ്ങനെ സഹായിക്കാനാകും നിങ്ങളെയും എന്നെയും പോലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ പോലീസിനൊപ്പം എങ്ങനെ പങ്കെടുക്കാം എന്നിവയൊക്കെ ഇതിൽ പെടും നിങ്ങളിൽ എത്രപേർ ഈ ചിത്രം മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്നാൽയഥാർത്ഥത്തിൽ ആളുകൾക്ക് മുമ്പ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടെത്താൻ ആദ്യ പ്രതികരണത്തിന് മുമ്പ് പോലീസ് യഥാർത്ഥത്തിൽ എത്തുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്നത് ഇതാദ്യമാണ് ഹഡ്സൺ നദിയിൽ ഇറങ്ങിയ യുഎസ് എയർവേയ്സ് വിമാനമാണിത് ആളുകൾ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നതോ ആളുകൾ സഹായിക്കാൻ ശ്രമിക്കുന്നതോ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ പുറത്തുവന്ന ആദ്യ ചിത്രവും ആദ്യ ട്വീറ്റും ഞാൻ അവരെ സഹായിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ നദീതീരത്തുകൂടി നടക്കുന്നതായിരുന്നു ആദ്യം ഇത് നടന്നത് 2009 ലാണ് അതുവരെ ട്വിറ്റർ എന്ന സോഷ്യൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ നെറ്റ്വർക്ക് യഥാർത്ഥത്തിൽ പരസ്പരം സംസാരിക്കാനാണ് കൂടുതലും ഉപയോഗിച്ചിരുന്നത് അവർ എന്താണ് ചെയ്യുന്നതെന്ന് പറയുക തിങ്കളാഴ്ച രാവിലെ ഹാഷ് ടാഗ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഒരിക്കൽ ട്വിറ്റർ ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ നെറ്റ്വർക്കുകൾ സംസാരിക്കാൻ ഉപയോഗിച്ചിരുന്നു അതേസമയം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആദ്യമായി ഇത് ഉപയോഗിച്ചപ്പോൾ ഇത്തരത്തിലാണ് യഥാർത്ഥത്തിൽ പ്രതിസന്ധി പരിഹരിക്കുന്നത് തീർച്ചയായും കുറച്ച് കാലമായി പോലീസ് സോഷ്യൽ മീഡിയ സോഷ്യൽ നെറ്റ്വർക്കുകളുടെ ഭാഗമാണ് ഇത് വളരെ രസകരമായി മാറിയ എന്റെ ഉദാഹരണം ഇതാ myNYPD എന്ന ഹാഷ് ടാഗ് NYPD പോലീസ് നിങ്ങൾക്ക് ഒരു NYPD അംഗത്തോടൊപ്പം ഒരു ഫോട്ടോ ഉണ്ടോ എങ്കിൽ myNYPD ഉപയോഗിച്ച് ഞങ്ങളെ ട്വീറ്റ് ചെയ്ത് ടാഗ് ചെയ്യുക എന്ന ട്വീറ്റിനൊപ്പം പോസ്റ്റ് ചെയ്ത ഹാഷ് ടാഗ് ആണ് ഇത് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഫീച്ചർ ചെയ്തേക്കാം ഇത് ട്വിറ്ററിൽ പുറത്തുവന്നു ഞങ്ങളുടെ ഫേസ്ബുക്ക് അക്കൌണ്ടിൽ യഥാർത്ഥത്തിൽ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാമെന്ന് അവർ പറഞ്ഞു രസകരമെന്നു പറയട്ടെ ഈ ഹാഷ് ടാഗ് ഉപയോഗിച്ച് അവർക്ക് ഇതുപോലുള്ള ചിത്രങ്ങൾ ലഭിക്കാൻ തുടങ്ങി അതുപോലെയുള്ള ചിത്രങ്ങൾ മാത്രമല്ല അവർക്ക് my NYPD ൽ നിന്ന് ലഭിച്ചത് എന്നാൽ ഈ ഹാഷ് ടാഗ് myNYPD ൽ നിന്ന് myLAPD ലേക്ക് പോയ രസകരമായ ചില ചിത്രങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ പറയുന്ന കാര്യം പോലീസ് ഉപയോഗിക്കുന്ന ഇത്തരം തന്ത്രങ്ങൾ ഓൺലൈൻ സോഷ്യൽ മീഡിയയിലും നടക്കുന്നുണ്ട് അത് ഹാഷ് ടാഗ് കൊടുക്കുക പൊതുജനങ്ങളെ പങ്കെടുപ്പിക്കുക ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ആണ് തീർച്ചയായും ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചതിലും പ്രതീക്ഷിച്ചതിലും വ്യത്യസ്തമായ ചിത്രങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് തിരിച്ചു വരാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒന്നരയോ രണ്ടോ വർഷങ്ങളായി ഇന്ത്യയിൽ ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കുകൾ ഓൺലൈൻ സോഷ്യൽ മീഡിയ സേവനങ്ങൾ ധാരാളം സ്വീകരിക്കുന്നുണ്ട് ചില ഉദാഹരണങ്ങൾ ഇതാ ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓൺലൈൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നിരവധി അക്കൌണ്ടുകൾ ഹാൻഡിലുകൾ എന്നിവയിലൂടെ പോകാൻ പോകുന്നു പിന്നെ ഈ ഹാൻഡിലുകളെക്കുറിച്ച് യഥാർത്ഥത്തിൽ സംസാരിക്കുന്ന പ്രക്രിയയിൽ ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഈ കോഴ്സ് സംസാരിക്കുന്ന ആളുകളും സോഷ്യൽ നെറ്റ്വർക്കുകൾ സാങ്കേതികമായി മനസ്സിലാക്കുന്ന ആളുകളും ഈ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കും എന്നും പറയാം മുകളിൽ ഇടതുവശത്തുള്ളത് യഥാർത്ഥത്തിൽ ഡൽഹി ട്രാഫിക് പോലീസാണ് താഴെയുള്ളത് യഥാർത്ഥത്തിൽ ഹൈദരാബാദ് സിറ്റി പോലീസാണ് ഉദാഹരണങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ ഉടൻ കാണിച്ചുതരാം പോലീസ് സംഘടനകൾ യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ സേവനങ്ങൾ ഉപയോഗിക്കുന്ന പൊതുവായ മാർഗം ഇതാ ഇത് ബാംഗ്ലൂർ സിറ്റി പോലീസിന്റെ ഒരു ഫേസ്ബുക്ക് പേജാണ് ഇന്ത്യയിൽ ഇപ്പോൾ ബാംഗ്ലൂർ സിറ്റി പോലീസ് ബാംഗ്ലൂർ ട്രാഫിക് പോലീസ് ഡൽഹി ട്രാഫിക് പേജ് എന്നിവയാണ് ഏറ്റവും പ്രചാരമുള്ള ഹാൻഡിലുകൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് ലഭിക്കുന്നത് ഈ പ്രത്യേക കോഴ്സ് പഠിപ്പിക്കുന്നത് എനിക്ക് വളരെ ആവേശകരമാണ് കാരണം ഞങ്ങൾ യഥാർത്ഥത്തിൽ വളരെ പ്രസക്തമായ വിഷയങ്ങൾ ആയതിനാലാണ് അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് തുറന്ന് ബാംഗ്ലൂർ സിറ്റി പോലീസിനെ നോക്കിയാൽ യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ സംസാരിക്കുന്ന ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും ബാംഗ്ലൂർ സിറ്റി പോലീസ് എന്നത് ഒരു വെരിഫൈഡ് പേജാണ് ബാംഗ്ലൂർ സിറ്റി പോലീസിന്റെ പേജിന്റെ മുകളിൽ ഇടതുവശത്ത് ഒരു നീല ടിക്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ് ആയിരക്കണക്കിന് ലൈക്കുകൾ ഉള്ള ഈ ചിത്രം കുറച്ചു കാലം മുമ്പ് എടുത്തതാണ് ഇപ്പോൾ ലൈക്കുകൾ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത്തരത്തിലുള്ള പോലീസ് പേജുകളിൽ നിന്ന് വരുന്ന ഒരു സാധാരണ പോസ്റ്റിന്റെ ഒരു ഉദാഹരണ ചിത്രം താഴെ കാണിക്കുന്നു 'സുഗമമായ ട്രാഫിക് ഒഴുക്കിനായി ഞങ്ങൾ നഗരത്തിലെ 10 ഇടനാഴികളിൽ ട്രാഫിക് സിഗ്നലുകൾ സിൻക്രൊണൈസേഷൻ ഏറ്റെടുക്കുന്നു' എന്നാണ് പോസ്റ്റ് പറയുന്നത് AddICPTraffic എന്ന ഹാൻഡിലിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് അതിനാൽ അവർ എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പൌരന്മാരെ അറിയിക്കാൻ കഴിയും എന്നതാണ് ഇതിന്റെ ആശയം പോലീസ് സംഘടനകളുമായി ആളുകൾ സംവദിക്കുന്ന ഈ പോസ്റ്റിനു തീർച്ചയായും നിരവധി ലൈക്കുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനാൽ CPBLR എന്നത് ഏകദേശം ഒന്നര വർഷം മുമ്പ് വളരെ പ്രചാരമുള്ള ഒരു ഹാൻഡിൽ ആണ് ഇത് CPBLR ന്റെ കറന്റ് അക്കൌണ്ടാണ് ഇതിൽ ഈ ഡെക്ക് സ്ലൈഡുകൾ തയ്യാറാക്കുന്നതിന് ഏതാനും മിനിറ്റ് മുമ്പ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത ഒരു ഭാഗമുണ്ട് ഇത് ഏകദേശം 10000 ട്വീറ്റുകളാണ് അക്കൌണ്ട് 60 ആളുകളെ പിന്തുടരുന്നു ഏകദേശം 688000 ആളുകൾ ഈ അക്കൌണ്ട് പിന്തുടരുന്നു ഈ അക്കൌണ്ട് യഥാർത്ഥത്തിൽ വളരെ ജനപ്രിയമാണെന്ന് ഇത് കാണിക്കുന്നു ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം 28 ന് മുമ്പ് അല്ലെങ്കിൽ ഒരു വർഷം എപ്പോഴെങ്കിലും ഞാൻ ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാകാം ഏകദേശം 335000 പേർ പറയുന്നു ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ 2016 ഓഗസ്റ്റ് ആണ് ഇത് ഏകദേശം 688000 ആണ് ഈ അക്കൌണ്ടിന്റെ പ്രവർത്തനവും യഥാർത്ഥത്തിൽ ഫോള്ളോവെഴ്സിന്റെ എണ്ണം വളരെ ഉയർന്നതും ആണ് ഈ അക്കൌണ്ടിന് പൌരന്മാരുമായുള്ള ഇടപെടലും വളരെ ഉയർന്നതാണ് അതിനാൽ അവർക്ക് ധാരാളം ഫോളോവെഴ്സിനെ ലഭിക്കുന്നു അതിനാൽ ഈ അക്കൌണ്ടുകൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് പ്രത്യേകിച്ചും ബാംഗ്ലൂർ ഡേറ്റയെ വിശകലനം ചെയ്യുന്നതിനായി ശേഖരിച്ച ചില ഡേറ്റയും നമ്മൾ നോക്കും ലോകമെമ്പാടുമുള്ള പോലീസ് ഓർഗനൈസേഷനുകൾ എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ന്യൂയോർക്ക് ബോസ്റ്റൺ ബാൾട്ടിമോർ തുടങ്ങി നിരവധി നഗരങ്ങളും മറ്റ് പല നഗരങ്ങളും യഥാർത്ഥത്തിൽ ഫേസ്ബുക്കും ട്വിറ്ററും സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിക്കുന്നത് ലൈക്കുകളും ഫോളോവേഴ്സുമുള്ള ഫേസ്ബുക്ക് ആണ് പൊതുവായ പോസ്റ്റും ജോയിന്റ് പോസ്റ്റും അവർ ആരംഭിച്ച വർഷം തന്നെയാണ് ഫെയ്സ്ബുക്ക് പേജിൽ ഉള്ളടക്കം പോസ്റ്റുചെയ്യാൻ അവരെ അനുവദിക്കുമോ എന്നതാണ് പോസ്റ്റ് കാരണം ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റ് ലൈക്ക് ചെയ്ത ആളുകൾക്കോ ഈ പേജ് ആക്സസ് ചെയ്യുന്ന ആളുകൾക്കോ യഥാർത്ഥത്തിൽ പേജിൽ പോസ്റ്റ് ചെയ്യാനാകുമോ എന്ന് നിയന്ത്രിക്കാനാകും യുകെയിലും ഫേസ്ബുക്കിനെ ധാരാളം സ്വീകരിച്ചിട്ടുണ്ട് തീർച്ചയായും ആർക്കെങ്കിലും താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷയം കൂടുതൽ സൂക്ഷ്മമായി കാണാനും പോസ്റ്റ് വിശകലനം ചെയ്യാനും ഓൺലൈനിൽ സോഷ്യൽ നെറ്റ്വർക്കിൽ നടക്കുന്ന ധാരാളം സന്ദർഭങ്ങളിൽ ഉള്ളടക്കം വിശകലനം ചെയ്യാനും കഴിയും നിങ്ങളിൽ ആർക്കെങ്കിലും ഇത് ചെയ്യുവാനോ ഈ പ്രശ്നം കൂടുതൽ അടുത്തറിയുവാനോ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങളുമായി ചാറ്റ് ചെയ്യുന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് അപ്പോൾ ഇന്ത്യയിലെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ഇത് കുറച്ച് കാലഹരണപ്പെട്ട ഡേറ്റയാണ് എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ജനപ്രിയമായ ബാംഗ്ലൂർ ഡൽഹി ട്രാഫിക് പോലീസ് ആണെന്ന് ഞാൻ കരുതുന്നു തീർച്ചയായും പല നഗരങ്ങളും ഓൺലൈൻ സോഷ്യൽ മീഡിയയിലും പ്രത്യേകിച്ച് ഫേസ്ബുക്കിലും ട്വിറ്ററിലും പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു യുട്യൂബിലും കുറച്ച് ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് അത് വളരെ കുറച്ചേ ഉള്ളു എന്നാണ് നമ്മളുടെ കാര്യത്തിൽ അക്കൌണ്ടുകൾ 2010 അല്ലെങ്കിൽ 2011 ന് ശേഷം ആരംഭിച്ചിരിക്കാംകൂടാതെ പോലീസിംഗിനായി ഇന്ത്യയിൽ സൃഷ്ടിച്ച എല്ലാ പേജുകളും ഈ പേജുകളിൽ യഥാർത്ഥത്തിൽ പോസ്റ്റുചെയ്യാൻ പൌരന്മാരെ അനുവദിക്കുന്നു ചില സിറ്റി പോലീസ് ഹാൻഡിലുകളിലൂടെ ഞാൻ നിങ്ങളെ നയിക്കട്ടെ എന്നിട്ട് അവർ ഈ ഹാൻഡിലുകളിൽ എന്തുതരം കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് നോക്കാം ഇതാണ് ബാംഗ്ലൂർ സിറ്റി പോലീസ് ബാംഗ്ലൂർ ട്രാഫിക് പോലീസ് എന്നിവരുടെ ഫേസ്ബുക്ക് ട്വിറ്റർ പേജുകളാണ് ഇത് ഒരു സാധാരണ പോലീസാണ് ഇവിടുത്തെ ട്രാഫിക്കിനെക്കുറിച്ച് ഞാൻ നേരത്തേ പറഞ്ഞതാണ് മുമ്പത്തെപോലെയുള്ള പോസ്റ്റ് അവർക്ക് ചെയ്യാൻ കഴിയും ഇത്തരത്തിൽ അവരെ സഹായിച്ചതിന് 10 ലക്ഷം രൂപ ക്യാഷ് റിവാർഡാണ് കൊടുത്തത് ഇതാ വീണ്ടും ഡൽഹി പോലീസിന്റെ ട്രാഫിക് ട്വിറ്റർ ഫേസ്ബുക്ക് പേജുകൾ ട്രാഫിക്കിന്റെ കാര്യത്തിലും അവരുടെ പോലീസ് സേനയിലെ അവരുടെ പോലീസ് ഉദ്യോഗസ്ഥരെ യഥാർത്ഥത്തിൽ അഭിനന്ദിക്കുന്നതിന്റെയും കാര്യത്തിൽ ഡൽഹി പോലീസ് ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്റാണിത് രസകരമെന്നു പറയട്ടെ ഈ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഈ പോലീസ് ഓർഗനൈസേഷനുകൾ മാത്രമല്ല പോലീസ് ഓർഗനൈസേഷനുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനാൽ അതുപോലെ തന്നെ സൃഷ്ടിക്കപ്പെടുന്ന വ്യാജ ഹാൻഡിലുകളും ഉണ്ട് ഈ ക്ലാസ് എടുക്കുന്ന വിദ്യാർത്ഥികളെപ്പോലുള്ള സാങ്കേതിക വിദഗ്ധർ ശ്രദ്ദിക്കേണ്ട ഒരു സാധാരണ പ്രശ്നമാണിതെന്ന് ഞാൻ കരുതുന്നു ഇത്തരത്തിലുള്ള വ്യാജ ഉള്ളടക്കം തിരിച്ചറിയാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായി വ്യാജ ട്രാഫിക്കുകൾ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ പോലും പാടാണ് ഡൽഹി ട്രാഫിക് പോലീസ് പേജ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോലീസ് ഓർഗനൈസേഷനുകൾ ചെയ്യുന്നതുപോലെയുള്ള സമാനമായ കാര്യങ്ങൾ ചെയ്യുന്ന 500 അക്കൌണ്ടുകൾ എങ്കിലും ഉണ്ടാവും നിങ്ങൾ എവിടെ നിന്നാണെങ്കിലും നിങ്ങളെപ്പോലെ വിവിധ നഗരങ്ങളിൽ ഇരുന്നുകൊണ്ട് പലരും ഈ പ്രഭാഷണങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ സംസ്ഥാനത്തെ പോലീസ് ഓർഗനൈസേഷനുകൾക്ക് നിങ്ങളുടെ നഗരത്തിൽ ഒരു ഫേസ്ബുക്ക് പേജോ ട്വിറ്റർ പേജോ ഉണ്ടോ എന്നും അവർ അതിൽ എന്ത് പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നതെന്നും നോക്കാം നിങ്ങളിൽ ചിലർ നിങ്ങളുടെ സ്വന്തം നഗരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് ഓർഗനൈസേഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഫോറത്തിൽ പോസ്റ്റുചെയ്താൽ അത് രസകരമായിരിക്കും പോലീസ് സംഘടനകൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുന്നത് രസകരമായിരിക്കും ഒരുപക്ഷേ ഈ വിഷയങ്ങൾ കുറച്ചുകാലം നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ധാരണ ലഭിക്കും പക്ഷേ നിങ്ങൾ ഒരു പ്രദേശവാസിയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകും ഈ സാഹചര്യത്തിൽ ഡൽഹി ട്രാഫിക് പോലീസിന്റേത് എന്ന പേരിൽ എന്റെ കൈവശമുള്ള സ്ലൈഡ് p o l i z e ഒരു വ്യാജ അക്കൌണ്ടാണ് വ്യത്യസ്ത പോലീസ് ഓർഗനൈസേഷനുകളുടെ പേരിൽ ഇതുപോലുള്ള നിരവധി അക്കൌണ്ടുകൾ ഉണ്ട് ഇതാ യുപി പോലീസ് യുപി പോലീസിന് ഒരു ഫേസ്ബുക്ക് പേജും ഒരു ട്വിറ്റർ പേജും ഉണ്ട് കൂടാതെ ഇതിൽ അവർ അവരുടെ പൌരന്മാരെ സഹായിക്കുന്നതിനെക്കുറിച്ചും ട്രാഫിക്കിനെക്കുറിച്ചും അവരുമായി ഇടപഴകുന്നതുമായ കാര്യങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും കൂടുതൽ പറയുന്നു അത് തീർച്ചയായും ഹൈദരാബാദ് പോലീസ് ആണ് ഇതാണ് ഹൈദരാബാദ് പോലീസിന്റെ സമീപകാല ട്വിറ്റർ ഹാൻഡിൽ ഇത് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് ഞാൻ എടുത്ത സ്ക്രീൻഷോട്ട് ആണ് ഇതും ഒരു വെരിഫൈ ചെയ്ത അക്കൌണ്ട് ആണ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ ഈ വെരിഫൈ ചെയ്ത അക്കൌണ്ടിലേക്ക് തിരികെ വരും എന്നാൽ ഇവിടെ വെരിഫൈ ചെയ്ത അക്കൌണ്ട് എന്താണെന്ന് ഞാൻ എടുത്തുകാണിക്കട്ടെ ഹൈദരാബാദ് പോലീസിനടുത്തുള്ള നീല ടിക്ക് മാർക്ക് അർത്ഥമാക്കുന്നത് ഇത് വെരിഫൈ ചെയ്ത അക്കൌണ്ട് ആണ് എന്നാണ് അതിനാൽ ഈ അക്കൌണ്ട് പരിശോധിച്ചു എന്ന് പറയുന്നു അതായത് ഇത് ശരിക്കും പോലീസിന്റെ അക്കൌണ്ട് തന്നെയാണെന്ന് ട്വിറ്റർ സ്ഥിരീകരിച്ചു ഒരു വെരിഫൈഡ് അക്കൌണ്ട് ലഭിക്കുന്നത് അത്ര എളുപ്പമല്ല ട്വിറ്ററിലെ എല്ലാ അക്കൌണ്ടുകളും പരിശോധിച്ചിട്ടില്ല ട്വിറ്ററിലെ ഉപയോക്താക്കളുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ യഥാർത്ഥത്തിൽ വെരിഫൈ ചെയ്തിട്ടുള്ളൂ ഇത് ഇപ്പോൾ ഒരു ദശലക്ഷം ഉപയോക്താക്കളാണെന്ന് ഞാൻ കരുതുന്നു ഈ വെരിഫൈ ചെയ്ത അക്കൌണ്ടുകൾ വളരെ സഹായകരമാണ് കാരണം അവർ ആരാണെന്ന് അറിയുന്നത് യഥാർത്ഥത്തിൽ പോലീസ് ഓർഗനൈസേഷനുകൾക്ക് വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ കരുതുന്നു ഇത് ഹൈദരാബാദ് സിറ്റി പോലീസിന്റെ വെരിഫൈഡ് അക്കൌണ്ട് ആണെന്ന് നിങ്ങളെ കാണിക്കുന്നു പ്രൊഫൈൽ പിക്ചർ പോലും ചേഞ്ച് ചെയ്യാത്ത ഹൈദരാബാദ് സിറ്റി പോലീസിന്റേത് പോലെയുള്ള അക്കൌണ്ടുകൾ ട്വിറ്ററിൽ എഗ്ഗ് പ്രൊഫൈൽ എന്ന് വിളിക്കുന്നു ഈ ഹാൻഡിൽ 2012 മുതലുള്ളതാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ചിലപ്പോൾ ഈ ഹാൻഡിൽ ഇപ്പോൾ ഇല്ലായിരിക്കാം പക്ഷേ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഈ ഹാൻഡിലുകളിൽ ചിലത് നമ്മൾ ട്രാക്ക് ചെയ്യണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ചിലപ്പോൾ ചില സംസ്ഥാനങ്ങൾ സംസ്ഥാനത്തെ എല്ലാ കാര്യങ്ങൾക്കും കൂടി ഒരു പേജ് മാത്രം മതിയെന്നും കോൺടെന്റ് പോസ്റ്റ് ചെയ്യുന്നതും ഇടപഴകലുകളും അതിലൂടെ മാത്രം മതിയെന്നും തീരുമാനിക്കും പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനായി ജില്ലാ തലത്തിൽ വിവിധ പേജുകൾ വേണമെന്ന് ചില ഓർഗനൈസേഷനുകൾ തീരുമാനിക്കാറുണ്ട് ഗുവാഹട്ടി പോലീസ് കൊൽക്കത്ത പോലീസ് കൊൽക്കത്ത പോലീസിന് രസകരമായ ഒരു ഹാൻഡിൽ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു അത് ഇടതുവശത്ത് മുകളിൽ കൊൽക്കത്ത പോലീസ് എന്ന് കാണിച്ചിരിക്കുന്നു വ്യാജ കൊൽക്കത്ത പോലീസ് ട്വിറ്റർ അത് കഴിഞ്ഞ ഒരു സ്മൈലി കൊടുത്തിരിക്കുന്നു അതിനാൽ പോലീസ് സംഘടനകളുടെ ഹാൻഡിലുകൾ അനുകരിക്കപ്പെടുകയും അക്കൌണ്ടുകൾ സൃഷ്ടിക്കുന്നതിനായി മാസ്തിബേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട് കൊൽക്കത്ത പോലീസിൽ ഇത് യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ എന്ന് നോക്കാം ഇത്തരം വ്യാജ അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്ന പ്രൊഫൈൽ ചിത്രം ഒരുപക്ഷേ നിയമാനുസൃതമായ കൊൽക്കത്ത പോലീസ് അക്കൌണ്ടിന് തുല്യമായിരിക്കും പൂനെ പോലീസ് വീണ്ടും പൂനെ ട്രാഫിക് പോലീസ് പൂനെ പോലീസ് ഞങ്ങൾക്ക് പോലും ഒരുപക്ഷെ ആർക്കും പോലും ഇത് പരിശോധിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്വന്തം നഗരങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് പേജുകൾ പോലും നിങ്ങൾക്ക് സ്വയം ലഭിക്കുന്നത് ബുദ്ധിമുട്ടാണ് വെരിഫൈ ചെയ്യാത്ത പക്ഷം യഥാർത്ഥ അക്കൌണ്ട് യഥാർത്ഥത്തിൽ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അവ നിയമാനുസൃതമാണോ എന്ന് കണ്ടെത്താനോ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത് ജയ്പൂർ ട്രാഫിക് പോലീസ് ആണ് ഞങ്ങൾ കണ്ടെത്തിയ ചില ഹാൻഡിലുകളുടെ ദുർബലമായ പര്യടനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഇവിടെയുള്ള ചിന്ത നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ നെറ്റ്വർക്കുകളിൽ പൌരന്മാർക്ക് അവരുടെ പോലീസ് ഓർഗനൈസേഷൻ അക്കൌണ്ടുകൾ കാണാൻ താൽപ്പര്യമുണ്ടെങ്കിലും ഞാൻ പോലീസിനെ സ്വീകരിച്ചതുപോലെയുള്ള അക്കൌണ്ടുകൾ സൃഷ്ടിക്കപ്പെടുന്ന മറ്റ് നിരവധി പോലീസുകളുണ്ട് ഇവ യഥാർത്ഥത്തിൽ പോലീസ് ഓർഗനൈസേഷൻ ഹാൻഡിലുകൾ ആണോ എന്ന് വ്യക്തമല്ല മുംബൈ പോലീസിന്റെ കാര്യത്തിൽ പെട്ടെന്നുള്ള ഒരു കാര്യം ഇതാ മുംബൈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുംബൈയെ സംരക്ഷിക്കുകയും സേവിക്കുകയും ചെയ്യുന്നതിനാണ് സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾ ഭയം ക്രമക്കേടുകൾ എന്നിവയെ ഞങ്ങൾ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തകൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുമുണ്ട് ഇത് നിയമാനുസൃതമായ അക്കൌണ്ടാണോ എന്ന് വ്യക്തമല്ല പിന്നെ മുംബൈ പോലീസിലെ ചേതൻ ഗാവലി ഇതിൽ ഉണ്ട് ഡൽഹി പോലീസിനും ഇതുപോലൊരു ഹാൻഡിൽ ഉണ്ട് ഇതുപോലെ ഒന്നിലധികം ഹാൻഡിലുകൾ ഉണ്ട് അതിനാൽ ഈ ഹാൻഡിലുകൾ നോക്കുമ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി ഇതിൽ നിയമാനുസൃതവും നിയമാനുസൃതമല്ലാത്തതും കണ്ടെത്താൻ പ്രയാസമാണ് എല്ലാ സംസ്ഥാന പോലീസ് ഓർഗനൈസേഷനുകളും സിറ്റി ഓർഗനൈസേഷനുകളും അവരുടെ ഫേസ്ബുക്ക് പേജുകൾ ട്വിറ്റർ ഹാൻഡിലുകൾ എന്നീ ഉറവിടങ്ങളിൽ നിന്ന് ഈ വിവരങ്ങൾ പിടിച്ചെടുക്കാനാണ് നമ്മൾ ഈ പേജ് സൃഷ്ടിച്ചത് അതിനാൽ വ്യത്യസ്ത ഹാൻഡിലുകൾ നോക്കുന്ന ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച വെബ്സൈറ്റിലൂടെ നിങ്ങളെ നയിക്കട്ടെ നമ്മൾ വിവിധ സംസ്ഥാന പോലീസ് ഓർഗനൈസേഷനുകളും അവരുടെ ഫേസ്ബുക്ക് പേജുകളും അവരുടെ ട്വിറ്റർ ഹാൻഡിലുകളും ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം സോഴ്സ് കോളം അടിസ്ഥാനപരമായി ഇത് നിയമാനുസൃതമായ ഹാൻഡിൽ ആണോ എന്ന് നമ്മൾക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞോ എന്ന് സൂചിപ്പിക്കുന്നതിനാണ് അതിനാൽ നിങ്ങൾക്ക് 80 അക്കൌണ്ടുകളിൽ 80 പേജുകൾ ഈ പേജിലെ 80 വരികൾ എന്നിവ വ്യക്തമായി കാണാം അവയിൽ ചിലത് മാത്രമേ സ്ഥിരീകരിച്ചിട്ടുള്ളൂ എന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും കാരണം ഈ പേജ് യഥാർത്ഥത്തിൽ പോലീസ് ഓർഗനൈസേഷൻ പേജ് ആണെന്ന് സ്ഥിരീകരിക്കാനുള്ള ഒരേയൊരു മാർഗ്ഗം ഈ പേജ് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് പോലീസ് ഓർഗനൈസേഷനുകൾ ചെയ്യുന്ന മറ്റൊരു മാർഗ്ഗം ഡൽഹി പോലീസ് ഡോട്ട് ഗവൺ ഡോട്ട് ഉള്ള യഥാർത്ഥ വെബ് സൈറ്റുമായി ഈ പേജിനെ ബന്ധിപ്പിക്കുക എന്നതാണ് ഒരുപക്ഷേ ആ പേജിൽ നിന്ന് യഥാർത്ഥ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ട്വിറ്റർ ഹാൻഡിൽ എന്നിവയുമായി ബന്ധിപ്പിക്കുക എന്നതാണ് നിയമാനുസൃതമായ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ട്വിറ്റർ ഹാൻഡിൽ സ്ഥിരീകരിക്കാൻ ഇത് ഞങ്ങളെ സഹായിക്കുന്നു കൊൽക്കത്ത പോലീസ് ഹൈദരാബാദ് സിറ്റി പോലീസ് ബാംഗ്ലൂർ സിറ്റി പോലീസ് ബാംഗ്ലൂർ സിറ്റി ട്രാഫിക്ക് ഇവ രണ്ടും ഫെയ്സ്ബുക്കിലും ട്വിറ്ററിലും പിന്നെ ഡൽഹി പോലീസും സി പി ഡൽഹി പോലെ വളരെക്കുറച്ച് മാത്രമാണ് വെരിഫൈ ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞങ്ങൾക്ക് കാണാതായ ഏതെങ്കിലും പേജ് ഉണ്ടെന്ന് അറിയുമ്പോൾ ഈ പേജ് അപ്ഡേറ്റ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഞങ്ങൾ കാണുന്നില്ലെന്ന് നിങ്ങൾ കരുതുന്ന ഏതെങ്കിലും പേജ് ഉണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ ഇപ്പോൾ ഫോറത്തിൽ അനുവദിക്കുക ഞങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കും ഈ സന്ദർഭത്തിൽ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ലഭിക്കുക എന്നതാണ് ഇവിടെയുള്ള ആശയം അതിനാൽ ഡാറ്റ ശേഖരണ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴ്സിന്റെ വിഷയം മനസ്സിൽ വച്ചുകൊണ്ട് ഈ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിന്ന് ഒരാൾക്ക് എങ്ങനെ ഡേറ്റ ശേഖരിക്കാമെന്നും ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് വളരെ ഉപയോഗപ്രദമാകുന്ന ചില വിശകലനങ്ങൾ എങ്ങനെ ചെയ്യാമെന്നും ഞാൻ കാണിച്ചുതരാം മുമ്പത്തെ പേജ് ഹാൻഡിലുകളിൽ നിന്ന് എടുത്ത പേജുകളുടെ ഒരു പട്ടികയാണ് ഞങ്ങൾ കുറച്ചുനാളായി സജ്ജീകരിച്ച ഈ പേജിലുള്ളത് ഇത് ആ പേജുകളിലേക്കുള്ള ലിങ്ക് മാത്രമല്ല അതിനാൽ ഞാനത് കാണിച്ചുതരാം ഇവിടെ ചെയ്തത് നമ്മൾ ഈ പേജുകളിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്നു എന്നതാണ് അത് ഇപ്പോൾ ഈ ലിങ്കിൽ നിന്ന് CP ഡൽഹി പേജ് തുറക്കുന്നു അതേസമയം ഇവിടെ നിന്ന് ഡേറ്റ ശേഖരിക്കുകയും ആ വേട്ടയിൽ നിന്ന്തന്നെ വിശകലനം നടത്തുകയും ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിച്ചു ഈ നെറ്റ്വർക്കുകളിൽ നിന്ന് ഡേറ്റ എടുക്കുന്ന ട്യൂട്ടോറിയലുകളിൽ നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾ ഇപ്പോൾ ക്യാപ്ചർ പോകുന്നു അതിനാൽ ഞാനിപ്പോൾ കർണാടകയിലേക്കും ബാംഗ്ലൂർ സിറ്റി പോലീസിലേക്കും നിങ്ങളെ കാണിക്കുന്നതിനായി പോകട്ടെ അടിസ്ഥാനപരമായി മുകളിലുള്ള ഇന്ത്യയുടെ ഭൂപടം ഡേറ്റബേസിൽ ഞങ്ങളുടെ കൈവശമുള്ള എല്ലാ ഹാൻഡിലുകളും ക്യാപ്ചർ ചെയ്യുന്നു അവിടെ നിന്ന് നിങ്ങൾ ഒരു സംസ്ഥാനത്ത് ക്ലിക്കുചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ ആ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകുകയും ആ സംസ്ഥാനത്തുള്ള എല്ലാ പേജുകളും കാണിക്കുകയും ചെയ്യും അവിടെ നിന്നും നിങ്ങൾക്ക് താഴേക്ക് ഒരു പ്രത്യേക അക്കൌണ്ടിലേക്ക് പോകാം ഞാൻ ഇവിടെ ചെയ്യുന്നത് പ്രത്യേകിച്ച് ബാംഗ്ലൂർ സിറ്റി പോലീസിന്റെ ഒരു ട്വിറ്റർ ഹാൻഡിൽ നോക്കിയാണ് അതിനാൽ ഇവിടെ സിറ്റി പോലീസ് ട്വിറ്റർ ഹാൻഡിൽ ഉണ്ട് കൂടാതെ ഞങ്ങൾക്ക് ഉപയോഗപ്രദമായ dcp dot gov dot in എന്ന യഥാർത്ഥ വെബ്സൈറ്റും ഞങ്ങൾ ക്യാപ്ചർ ചെയ്തു ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഫേസ്ബുക്ക് ആണ് നിങ്ങൾക്ക് ട്വിറ്ററിലേക്കും പോകാം ഫേസ്ബുക്കിലെ ഡേറ്റ കളക്ഷനെക്കുറിച്ച് പറഞ്ഞ ട്യൂട്ടോറിയൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവുംഇപ്പോൾ ഈ അക്കൌണ്ടുകളിൽ നിന്ന് ഡാറ്റ ശേഖരിക്കുകയും അവയെ json ൽ നിന്ന് ഡാറ്റാബേസിൽ ഇടുകയും ഗ്രാഫ് ശരിയായി ചെയ്യുകയും ചെയ്യാം അതിനാൽ നമുക്ക് യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റ് ചില ഗ്രാഫുകൾ ഞങ്ങൾ സ്ലിക്കർ ചെയ്യാൻ പോകുന്നു ഇവിടെ നിങ്ങൾക്ക് ഈ ഹാൻഡിലുകൾ എങ്ങനെയാണ് പോസ്റ്റുചെയ്യുന്നതെന്ന് കാണാൻ ഡേറ്റയിലേക്ക് സൂം ഇൻ ചെയ്യാം ഉദാഹരണത്തിന് ഇവിടെ ബാഗ്ലൂർ സിറ്റി പോലീസിന്റെ കാര്യം നോക്കാം 12 പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ ലൈക് 1 ഉം കമന്റ് 32 ഉം ആയിരുന്നു ഹാൻഡിലുകൾ എത്രത്തോളം ആക്റ്റീവ് ആണെന്നുള്ള വിവരം ഇത് നൽകുന്നു ഈ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിന്നുള്ള ഇത്തരം ഡേറ്റ ഉപയോഗിച്ച് നിങ്ങൾക്ക് രസകരമായ വിശകലനം നടത്താൻ കഴിയും അത്തരം ഡേറ്റ ശേഖരിക്കുന്നതും നോക്കുന്നതും പോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോൾ മതിയായ കഴിവുകളുണ്ട് ഈ ആഴ്ച കോഴ്സിനായി നമ്മൾ നോക്കാൻ പോകുന്ന കോഴ്സ് ചോദ്യങ്ങൾ പോലും നിങ്ങൾക്ക് ശേഖരിക്കാവുന്ന ചില ഡാറ്റകളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില വിശകലനങ്ങളും അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ ഇത് നിങ്ങൾക്ക് നല്ല ബോധം നൽകുന്നു അപ്പോൾ നമുക്ക് പോസ്റ്റ് വിശകലനം മാത്രം നോക്കാം അവർ ചെയ്ത പോസ്റ്റ് ഏതാണ് അതിനു അവർ എത്ര സമയം എടുത്തു ഡേറ്റയിലെ ഏത് പോസ്റ്റാണ് നിങ്ങൾക്ക് സൂം ചെയ്യാൻ കഴിയുക ഏത് തരത്തിലുള്ള പോസ്റ്റ് ആണത് എപ്പോഴാണ് അവർ അത് ചെയ്തത് അവർ എത്ര പോസ്റ്റുകൾ ചെയ്യുന്നു തുടങ്ങിയതെല്ലാം നമുക്ക് വിശകലനം ചെയ്യാം ഉദാഹരണത്തിന് 2014 ഡിസംബർ 29 ൽ അവർ 59 പോസ്റ്റുകൾ ചെയ്തുവെന്ന് ഇവിടെ പറയുന്നു അതുപോലെ നിങ്ങൾക്ക് ലൈക്കുകളും അഭിപ്രായങ്ങളും നോക്കാം എങ്ങനെയാണു ഇത്തരം പോലീസ് ഓർഗനൈസേഷനുകൾ ഡേറ്റ ഉപയോഗിക്കുന്നതെന്നുംഈ ഡേറ്റ എങ്ങനെ ശേഖരിക്കാമെന്നുംഎങ്ങനെ വിശകലനം ചെയ്യാമെന്നും നിങ്ങൾക്ക് അവബോധം നല്കാൻ ഇതിനു സാധിക്കുമെന്നും നിങ്ങൾക്ക് കൂടുതൽ വിശകലനങ്ങൾ നടത്താനാവുമെന്നും എനിക്ക് ഉറപ്പുണ്ട് പോലീസ് ഓർഗനൈസേഷനുകൾക്കായുള്ള ഈ സോഷ്യൽ മീഡിയ സേവനങ്ങളിൽ നിന്ന് നമ്മൾ ശേഖരിച്ച ഡേറ്റ ഉപയോഗിച്ച് നമ്മൾ ഉത്തരം നൽകാൻ ശ്രമിക്കുന്ന ഒരു നിർദ്ദിഷ്ട ചോദ്യങ്ങളെക്കുറിച്ചും ഞാൻ പ്രത്യേകമായി സംസാരിക്കാൻ പോകുന്നു